അടയാളവാക്കുകൾ ആക്ച്യുവേറ്റർ PID കണ്ട്രോളർ ഫ്രീക്വൻസി നോയിസ് നിയന്ത്രണം പൊസിഷൻ ഫോം PID നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഈ കോഴ്സിന്റെ 12 ാം പാഠത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ഒരു പ്രതിഭാസത്തിലേക്ക് നോക്കാം ഇത് സാധാരണയായി ഇന്റഗ്രൽ കൺട്രോളിൽ സംഭവിക്കുന്നതും ഓട്ടോ മാനുവൽ ട്രാൻസ്ഫർ സമയത്ത് സംഭവിക്കുന്നതുമായ ഒരു പ്രശ്നമാണ് ഞാൻ ആദ്യം ഈ പദം വിശദീകരിക്കാം ചില സാഹചര്യങ്ങളിൽ ഓപ്പറേറ്റർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇൻപുട്ട് നൽകാൻ അനുവദിക്കുന്ന നിരവധി പ്രക്രിയകളുണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കണ്ട്രോളറിനെ മറികടക്കാൻ കഴിയും പകരം ഒരു പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ നോബ് അല്ലെങ്കിൽ സ്വിച്ച് പോലുള്ള ചില ഇൻപുട്ട് ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്ലാന്റിന് സ്വമേധയാലുള്ള ഇൻപുട്ട് നൽകാം നിങ്ങൾക്ക് അത് പതുക്കെ പടുത്തുയർത്താനും കഴിയും ഇത് ചില ഉദ്ദേശ്യങ്ങൾക്കായിരിക്കാം പക്ഷേ നിങ്ങൾ എല്ലായ്പ്പോഴും പ്ലാന്റ് സ്വമേധയാ പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് നിയന്ത്രണത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു ഈ സ്വിച്ച് ഓവർ പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നത് പോലെ സംഭവിക്കാം ഇതാണ് പ്രക്രിയ ഇതാണ് ആക്ച്യുവേറ്റർ ആക്ച്യുവേറ്ററിലേക്കുള്ള ഇൻപുട്ട് ഈ മാനുവലിൽ നിന്നോ ഓട്ടോമേറ്റഡ് PID കൺട്രോളറിൽ നിന്നോ വരാം ഇതൊരു ഓട്ടോമാറ്റിക് കണ്ട്രോളറാണ് ഇത് മാനുവലാണ് ഓപ്പറേറ്റർ യഥാർത്ഥത്തിൽ ഇവിടെ കുറച്ച് ഇൻപുട്ട് നൽകുന്നു ഇവിടെ നിങ്ങൾക്ക് ഫ്ലിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വിച്ച് ഉണ്ട് അതിനാൽ ആക്ച്യുവേറ്ററിന് അതിന്റെ ഇൻപുട്ട് ഓട്ടോമാറ്റിക് പിഐഡി കൺട്രോളറിൽ നിന്നോ മാനുവൽ കൺട്രോളറിൽ നിന്നോ ലഭിക്കും ഇപ്പോൾ പ്രധാന ചോദ്യം കൈമാറ്റം ചെയ്യുമ്പോൾ ഈ സ്വിച്ച് സ്വയമേവ ഫ്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ അറിയും എന്നതാണ് ഉദാഹരണത്തിന് ഇൻപുട്ട് 1 വോൾട്ട് ആണെന്ന് ഇവിടെ കരുതുക ഇപ്പോൾ നിലവിലുള്ള ഇൻപുട്ട് 10 വോൾട്ട് ആയിരിക്കാം മുമ്പ് 1 വോൾട്ട് ഇൻപുട്ടും ഇപ്പോൾ 10 വോൾട്ട് ഇൻപുട്ടും ലഭിക്കുന്ന ആക്ച്യുവേറ്ററിന് പെട്ടെന്ന് എന്ത് സംഭവിക്കും ആക്ച്യുവേറ്റർ ഒരു മോട്ടോർ ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു വാൽവാണെങ്കിൽ ഒരു ഷോക്ക് ലഭിച്ചേക്കാം അതുപോലെ തന്നെ പ്രോസസ് വളരെ ഉയർന്ന ഇൻപുട്ടുകൾ നേടുന്ന പ്രവണത കാണിക്കും അതിനാൽ നമ്മൾ സാധാരണയായി പ്രോസസ്സർ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഷോക്ക് ഉണ്ടാകും റാമ്പായി ഇൻപുട്ട് വർദ്ധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രമേണ നമ്മൾ ഇപ്പോൾ 1 വോൾട്ടിന്റെ ഇൻപുട്ട് നൽകും തുടർന്ന് 10 വോൾട്ട് പിന്നീട് മൈനസ് 2 വോൾട്ട് അതിനാൽ അത്തരം ഇൻപുട്ടുകൾ പ്രക്രിയയിലോ ആക്ച്യുവേറ്റർ ഉപകരണങ്ങൾകോ ഹാനികരമാണ് അതിനാൽ കൈമാറ്റം ചെയ്യുമ്പോൾ PID ഔട്ട്പുട്ട് മാനുവലിനടുത്താണെന്ന് എങ്ങനെ ഉറപ്പാക്കാം എന്നതാണ് ചോദ്യം വാസ്തവത്തിൽ പിഐഡി നിയന്ത്രണം അതിന്റെ ഔട്ട്പുട്ട് ആക്ച്യുവേറ്ററിലേക്ക് പോകുന്നില്ലെന്ന് ഓർമ്മിക്കുന്നതിനാലല്ല ഇത് സംഭവിക്കുന്നത് എന്നാൽ ഇത് എല്ലായ്പ്പോഴും സെറ്റ് പോയിന്റും അളവുകളും നേടുന്നു അതിനാൽ ഇത് എല്ലായ്പ്പോഴും പിശക് കണക്കാക്കുന്നു അതിന്റെ ഇന്റഗ്രൽ കണക്കാക്കുന്നു PID നിയന്ത്രണ ഔട്ട്പുട്ട് യഥാർത്ഥത്തിൽ സാച്ചുറേറ്റ് ആകാൻ സാധ്യതയുണ്ട് സ്വമേധയാലുള്ള നിയന്ത്രണം ഉപയോഗിച്ച് നിങ്ങൾ പ്രക്രിയ കൈകാര്യം ചെയ്യുന്ന സമയത്ത് PID ഔട്ട്പുട്ട് ഇതിനകം സാച്ചുറേറ്റ് ആകാൻ സാധ്യതയുണ്ട് അത് ആരംഭിക്കുന്നത് ഒന്നുകിൽ അതിന്റെ നെഗറ്റീവ് പരമാവധി അല്ലെങ്കിൽ പോസിറ്റീവ് പരമാവധി നിന്നാവും ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്താൽ നിങ്ങൾ പ്ലാന്റിന് ഒരു ഷോക്ക് നൽകും അത് ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് ഒഴിവാക്കുന്നതിന് ഇൻപുട്ട് u നൽകുന്നതിനുപകരം ഇൻപുട്ട് ΔU നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഒരു സമർത്ഥമായ പദ്ധതിയാണെന്ന് നമുക്ക് കാണാം നമ്മൾ മാനുവൽ നിയന്ത്രണത്തിലാണെന്ന് കരുതുക അതിനാൽ ഓരോ തവണയും നമ്മൾ യഥാർത്ഥത്തിൽ ΔU നൽകുന്നു ഒരു പ്ലസ് മൈനസ് എത്താനും സാധ്യതയുണ്ട് നിങ്ങൾ പ്ലസിലേക്ക് സ്വിച്ചുചെയ്യുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ΔU നൽകുമ്പോഴെല്ലാം ഇൻപുട്ട് വർദ്ധിക്കും സ്വിച്ച് മൈനസിലേക്ക് ഫ്ലിക്കുചെയ്യുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ΔU നൽകുന്നു കൂടാതെ ഈ ΔU ചില ഉപകരണങ്ങളാൽ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു ഒരുപക്ഷേ ഇപ്പോൾ ആക്ച്യുവേറ്ററിൽ ആയിരിക്കാം കൂടാതെ PID കൺട്രോളർ നിങ്ങൾക്ക് u നൽകുന്നില്ല പക്ഷേ ΔU കണക്കുകൂട്ടുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇൻപുട്ട് നൽകുന്നു ഇത് ΔU എങ്ങനെ കണക്കാക്കുന്നുവെന്ന് നമ്മൾ ഉടൻ കാണും ഇൻക്രിമെൻറ് പിഐഡി ഫോം എന്നറിയപ്പെടുന്ന ഒരു ഫോമിലാണ് പിഐഡി നിയന്ത്രണം നടപ്പിലാക്കുന്നത് അത് നമുക്ക് ΔU നൽകുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കരുതുക UK - 1 വരെ മാനുവൽ മോഡിലാണ് ഇപ്പോൾ പെട്ടെന്ന് UK 1 നും UKനും ഇടയിൽ അതായത് K 1 മുതൽ K വരെയുള്ള സമയ തൽക്ഷണങ്ങൾക്കിടയിൽ നിങ്ങൾ ഓട്ടോ ലേക്ക് സ്വിച്ചുചെയ്തു അതിനാൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ഒരു UK 1 പ്ലസ് ΔUK ആക്ച്യുവേറ്ററിലേക്ക് ചേർക്കും ഇത് ഓട്ടോ മോഡിൽ നിന്ന് വരും എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഡെൽറ്റ പദമാണ് അതിനാൽ ഇത് ഒരു വർദ്ധനവാണ് ഇത് വളരെ വലുതായിരിക്കില്ല അതിനാൽ പ്രക്രിയയ്ക്ക് പഴയ മാനുവൽ ഇൻപുട്ടും ചെറിയ മാറ്റവും ലഭിക്കും ഇത് ഓട്ടോ കാരണമാണ് അതിനാൽ ഇതിന് ഒരു ഷോക്ക് ലഭിക്കില്ല അതിനാൽ ക്രമേണ UK കെട്ടിപ്പടുക്കുകയും പ്രക്രിയയെ ഒരു ഇൻപുട്ടിൽ നിന്ന് മറ്റൊരു ഇൻപുട്ടിലേക്ക് സാവധാനം കൊണ്ടുപോകുകയും ചെയ്യും അതിനാൽ ഓട്ടോയിൽ നിന്ന് മാനുവൽ മോഡിലേക്കുള്ള കൈമാറ്റം തടസ്സമില്ലാതെ പോകുന്നു ഇതാണ് ഉപയോഗിക്കുന്ന പദങ്ങൾ അതിനാൽ നിങ്ങൾ ഇന്റഗ്രൽ പദങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രശ്നങ്ങളാണിവ ഇനി നമുക്ക് ഡെറിവേറ്റീവ് പദത്തിലേക്ക് വരാം അതിനാൽ ഡെറിവേറ്റീവുകളുമായുള്ള ആദ്യത്തെ പ്രശ്നം നോക്കാം ഡെറിവേറ്റീവുകൾ സാധാരണയായി ഉയർന്ന ഫ്രീക്വൻസി നോയിസ് വർദ്ധിപ്പിക്കും ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള നോയിസ് എവിടെ നിന്ന് വരുന്നു ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള നോയിസ് സെൻസറുകളിൽ നിന്ന് വരുന്നു ഉദാഹരണത്തിന് ഒരു ഫ്ലോ സെൻസർ പരിഗണിക്കാം ഒരു ഫ്ലോ സെൻസർ എല്ലായ്പ്പോഴും പ്രക്ഷുബ്ധമാണ് ക്രമരഹിതമായ ഫാഷനുകളിൽ ദ്രാവകം ഒഴുകുന്നു നിങ്ങൾക്ക് ഒരു നിശ്ചിത വേഗതയ്ക്കപ്പുറമുള്ള ഒഴുക്ക് ഉണ്ടാകുമ്പോഴെല്ലാം ഒഴുക്ക് പ്രക്ഷുബ്ധമാണ് അതിനാൽ നിങ്ങൾക്കുള്ള സെൻസർ എന്തായാലും പ്രക്ഷുബ്ധത ശരാശരി വോള്യൂമെട്രിക് ഫ്ലോ റേറ്റിനേക്കാൾ വളരെ ഉയർന്ന ആവൃത്തികളെ പ്രേരിപ്പിക്കുന്നു അതിനാൽ ശരാശരി വോള്യൂമെട്രിക് ഫ്ലോ റേറ്റ് ഇതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും സെൻസറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സിഗ്നൽ വളരെ ഉയർന്ന ഫ്രീക്വൻസി ഘടകങ്ങളെ പ്രേരിപ്പിച്ചേക്കാം അതിനാൽ സിഗ്നൽ യഥാർത്ഥത്തിൽ ടർബുലൻസ് മൂലമാണ് അതിനാൽ ഇത് ഒരു നോയിസ് നൽകുന്നു ഇപ്പോൾ നമുക്ക് ഈ സിഗ്നൽ എടുക്കുകയും ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സിഗ്നൽ ഉണ്ടെന്നും നിങ്ങൾക്ക് നോയിസ് ഉണ്ടെന്നും കരുതുക ഞാനിത് ഇവിടെ വരയ്ക്കുന്നു യഥാർത്ഥത്തിൽ നോയിസ് കൂടുതൽ ഫ്രീക്വൻസിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കുറഞ്ഞ ഫ്രീക്വൻസി സിഗ്നലിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇത് ഈ സമയം വരെ പോസിറ്റീവായി തുടരും അത് പതുക്കെ കുറയുകയും പിന്നീട് ഇവിടെ നെഗറ്റീവ് ആകുകയും ചെയ്യും ഇതിന് ചുറ്റുമുള്ള ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകാൻ പോകുന്നു തുടർന്ന് നമ്മൾ പൂജ്യത്തിലേക്ക് വീഴുകയും പിന്നീട് നെഗറ്റീവ് ആകുകയും ചെയ്യും മറ്റ് സിഗ്നലിന്റെ ഡെറിവേറ്റീവ് ഈ ഹ്രസ്വ സമയത്തിനുള്ളിൽ പോസിറ്റീവ് ബിറ്റിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നുവെന്ന് കാണുക ഇത് ഒരു നെഗറ്റീവ് പരമാവധി എത്തും അതിനാൽ ഇത് വ്യാപകമായി വ്യത്യാസപ്പെടും ഈ സിഗ്നലുകൾ പരസ്പരം കൂടുതലോ കുറവോ ആയിരിക്കുമ്പോൾ അവയുടെ ഡെറിവേറ്റീവ് പദങ്ങൾ തികച്ചും വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാം അതിനാൽ നിങ്ങൾ കൃത്യമായ ഡെറിവേറ്റീവ് കണക്കാക്കുകയാണെങ്കിൽ ഉയർന്ന ഫ്രീക്വൻസി നോയിസ് പോലും നിങ്ങൾക്ക് നിയന്ത്രണ ഇൻപുട്ടിൽ വളരെയധികം വ്യത്യാസങ്ങൾ നൽകും അതിനാൽ നിങ്ങൾ ഒരു ഡെറിവേറ്റീവ് ഉപയോഗിക്കേണ്ടതുണ്ട് അത് ഒരു നിശ്ചിത ഫ്രീക്വൻസി വരെ ഒരു ഡെറിവേറ്റീവ് പോലെ പ്രവർത്തിക്കും പക്ഷേ ഒരു നിശ്ചിത ഫ്രീക്വൻസിക്കപ്പുറം അതിന്റെ ഗെയിൻ വർദ്ധിക്കില്ല അതിനാൽ ഉയർന്ന ഫ്രീക്വൻസി നോയിസ്നുള്ള ഗെയിൻ നമ്മൾ പരിമിതപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ഇത് ചെയ്യുന്നതിന് ഒരു ഡെറിവേറ്റീവിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ s എന്ന് നമ്മൾ എഴുതുന്നു സിഗ്നലിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഇപ്പോൾ പരിഗണിക്കുകയാണെങ്കിൽ S 1Ts S വ്യത്യാസപ്പെടുന്നു അതായത് ഫ്രീക്വൻസി വ്യത്യാസപ്പെടുന്നതുപോലെ S 1Ts വ്യത്യാസപ്പെടും കുറഞ്ഞ ഫ്രീക്വൻസിയിൽ 1 മായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പദം ചെറുതാണ് അതിനാൽ ഇത് പ്രദേശത്തിന്റെ ഈ ഭാഗത്ത് s പോലെ പ്രവർത്തിക്കുന്നു S വലുതായിരിക്കുന്ന പ്രദേശത്തിന്റെ ഈ ഭാഗത്ത് അത് Ts ആണ് Ts 1 നെക്കാൾ വളരെ വലുതാണ് ഈ ഗെയിൻ 1 T ന് തുല്യമാകും അതിനാൽ ഈ ലെവൽ 1 T ആണ് താഴ്ന്ന ഫ്രീക്വൻസി മേഖലയിൽ നമുക്ക് ഒരു ഡെറിവേറ്റീവ് ഉണ്ട് എന്നാൽ ഉയർന്ന ഫ്രീക്വൻസി മേഖലയിൽ നമുക്ക് 1 ന്റെ സ്ഥിരമായ ഗെയിൻ 1 T ഉണ്ട് അതിനാൽ അതാണ് നിങ്ങളുടെ ഡെറിവേറ്റീവ് അതിനാൽ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ ഇത് S ആണെന്നും ഉയർന്ന ഫ്രീക്വൻസിക്ക് ഇത് 1 T ആണെന്നും ആശയം ഇപ്പോൾ ഇത് ചിലതരം മെക്കാനിക്കൽ ആക്ച്യുവേറ്ററുകൾക്കും ഉപയോഗപ്രദമാണ് നിങ്ങൾ വളരെ ഉയർന്ന ഫ്രീക്വൻസി സിഗ്നൽ നൽകി ഡെറിവേറ്റീവ് സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വളരെ ഉയർന്ന ഫ്രീക്വൻസി നൽകാൻ പോകുന്നു പോസിറ്റീവ് നെഗറ്റീവ് ടോർക്കുകൾ പ്രവർത്തിക്കും ഇത് ഒരു നിയന്ത്രണ വാൽവ് പോലുള്ള ഒരു മെക്കാനിക്കൽ ആക്ച്യുവേറ്ററിന് നല്ലതല്ല ഇത് വാൽവിനെ തകരാറിലാക്കാം അത്തരം നോയിസ് പലതരം അളവുകളിൽ നിന്ന് ഉണ്ടാകാമെന്ന് ഞാൻ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു വ്യാവസായിക പ്രക്രിയയിൽ വളരെ സാധാരണമായ ഫ്ലോ അളവുകളിൽ നിന്നും ഡെറിവേറ്റീവ് നിയന്ത്രണ ഘടനയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രശ്നമുണ്ട് ഇതുവരെ നമ്മൾ ഇതുപോലുള്ള PID നിയന്ത്രണം നടപ്പിലാക്കുകയും അതിന് പിശക് ഇൻറെ പദം ഉണ്ടാവുകയും ചെയ്തു പിശക് പദം Kp Ki KD കൊണ്ട് ഗുണിച്ചു ഇപ്പോൾ നമുക്ക് പ്രക്രിയക്ക് ഷോക്ക് നൽകുന്നത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു മിക്ക കേസുകളിലും സെറ്റ് പോയിന്റ് ഒരു സ്റ്റെപ്പ് പോലെ മാറ്റുന്നു അതിനാൽ സ്റ്റെപ്പ് പോലെ മാറുകയാണെങ്കിൽ പിശകിന് എന്ത് സംഭവിക്കും ഇത് ഒരു സ്റ്റെപ്പ് പോലെ മാറാൻ പോകുന്നു അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് ഔട്ട്പുട്ട്ന് എന്ത് സംഭവിക്കും ഇത് വളരെയധികം ഉയരാൻ പോകുന്നു തുടർന്ന് അത് പൂജ്യത്തിലേക്ക് വീഴാൻ പോകുന്നു അതിനാൽ നമ്മൾ ഡെറിവേറ്റീവ് ഇവിടെ ഇടുകയാണെങ്കിൽ നമ്മൾ പ്ലാന്റിന് ഷോക്ക് ഇൻപുട്ട് നൽകാൻ പോകുകയാണോ R മാറ്റുന്നില്ലെങ്കിൽ അത്തരം ഷോക്ക് എങ്ങനെ ഒഴിവാക്കാനാകും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം r സ്ഥിരമാണെങ്കിൽ ഡിസ്റ്റർബൻസ് പോലുള്ള മറ്റ് ഘടകങ്ങൾ കാരണം y മാറുന്നു ഇതിനർത്ഥം എനിക്ക് ഡെറിവേറ്റീവ് നിയന്ത്രണം നിലനിർത്തേണ്ടതുണ്ട് ഡെറിവേറ്റീവ് നിയന്ത്രണം ത്യജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്റ്റെപ്പ് പോലെ മാറുന്ന ഒരു ഉദാഹരണം ഒഴികെ എനിക്ക് അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഏറ്റവും ബുദ്ധിപൂർവമായ മാർഗം r എന്നത് സ്ഥിരമായിരിക്കുമ്പോൾ ഇത് നടപ്പിലാക്കുക എന്നതാണ് e r y അതിനാൽ r സ്ഥിരമാകുമ്പോൾ de dt dy dt അതിനാൽ ഇവിടെ de dt ഉള്ളതിനുപകരം എനിക്ക് ഇവിടെ y എടുത്ത് ചിഹ്നം മാറ്റി അതേ ബ്ലോക്ക് ഇവിടെ നടപ്പിലാക്കാം R മാറാത്തപ്പോൾ ഞാൻ de dt ന് സമാനമായ പ്രഭാവം നേടാൻ പോകുന്നു പക്ഷേ r ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ യാതൊരു ഫലവുമില്ല അതിനാൽ ആ സമയത്ത് അത് പതുക്കെ ഉയരുകയും അനുബന്ധ ഫലം നിങ്ങൾക്ക് പിഡിയിൽ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഈ ഷോക്ക് വരില്ല അതിനാൽ ഇത് ഒരു ഡെറിവേറ്റീവ് നിയന്ത്രണം നടപ്പിലാക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ അവസാനത്തെ വിഷയത്തിലേക്ക് വരുന്നു അത് ഡിജിറ്റൽ റിയലൈസേഷൻ ആണ് കാരണം ഇപ്പോൾ മിക്ക കൺട്രോളറുകളും യഥാർത്ഥത്തിൽ മൈക്രോപ്രൊസസ്സറുകൾ ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത് മൈക്രോപ്രൊസസ്സറിൽ പിഐഡി സമവാക്യം എങ്ങനെ നടപ്പാക്കും നമ്മൾ ചെയ്യുന്നത് ഡിസ്ക്രിടൈസേഷൻ എന്നറിയപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്റഗ്രലിനെ നമ്മൾ ഒരു തുക ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ ഒരു ഡിജിറ്റൽ കൺട്രോളറിൽ ചില തൽക്ഷണ സമയങ്ങളിൽ ഇൻപുട്ടുകൾ കണക്കുകൂട്ടാൻ കഴിയുമെന്ന് നമ്മൾ പറയുന്നു അതിനാൽ T എന്നത് തൽക്ഷണങ്ങളാണെങ്കിൽ അവയെ സാമ്പിൾ തൽക്ഷണങ്ങൾ എന്ന് വിളിക്കുന്നു അതിനാൽ Kth സാമ്പിൾ തൽക്ഷണത്തിൽ Tയുടെ സമയ മൂല്യം ക്ക് തുല്യമാണ് ഇൻപുട്ടിൽ വീണ്ടും മൂന്ന് പദങ്ങൾ അടങ്ങിയിരിക്കുന്നു കെടിയിൽ പ്രൊപോഷണൽ മൂല്യവും ഇന്റഗ്രൽ മൂല്യവും ഡെറിവേറ്റീവ് മൂല്യവുമുണ്ട് നമ്മൾ എങ്ങനെ പ്രൊപോഷണൽ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് പദങ്ങൾ കണക്കാക്കും എന്നതാണ് ഇപ്പോൾ ഉള്ള ചോദ്യം അതിനാൽ പ്രൊപോഷണൽ കണ്ട്രോളർ P KP e നമ്മൾ സമവാക്യം സാമ്പിൾ ചെയ്യുന്നു ഇന്റഗ്രൽ കൺട്രോളർ യഥാർത്ഥത്തിൽ റിയലൈസ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ഡിഫറൻസ് ഇന്റഗ്രേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് k 1 മുതൽ k വരെയുള്ള സമയ ഇടവേളയിൽ e സ്ഥിരമായിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കും ഇന്റഗ്രേറ്റ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യുന്നത് ലളിതമായ ഒരു കാര്യമാണ് അതായത് ഇത് e ആണെങ്കിൽ ഇത് ek 1 ഉം ഇത് ek ആണെങ്കിൽ നമുക്ക് ek ലഭിച്ചതിനുശേഷം എന്താണ് ഇന്റഗ്രൽ ആകാൻ പോകുന്നത് ഇത് ek 1 ആണ് തുടർന്ന് പിശക് ഇതുപോലെ കുറയുന്നു അതിനാൽ ek മുതൽ ek 1 അത് kT മുതൽ k 1 T വരെയാണ് ഈ പിശക് നിലനിർത്താൻ പോകുന്നുവെന്ന് ഞാൻ അനുമാനിക്കുന്നു ഇന്റഗ്രൽ ഒരു ദീർഘചതുരമായി ഉയരും അതിനാൽ ഞാൻ ഈ ഇന്റഗ്രലിനെ ഗുണിക്കുകയും e യെ T കൊണ്ട് ഗുണിക്കുകയും ചെയ്യുന്നു അത് ഇന്റഗ്രൽ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തുടർന്ന് ഇന്റഗ്രലിന്റെ ഇപ്പോഴത്തെ മൂല്യം നേടുന്നതിന് ഇന്റഗ്രലിന്റെ മുൻ മൂല്യവുമായി ഇത് ചേർക്കുന്നു അതുപോലെ നമ്മൾ ഡെറിവേറ്റീവ് പദം ലളിതമാക്കും ഈ T ഇവിടെ കൊണ്ടുവരിക അതിനാൽ നമുക്ക് അടിസ്ഥാനപരമായി y ഡോട്ട് t യുടെ ഏകദേശ രൂപം ലഭിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഞാൻ സാമ്പിളുകൾ ഉപയോഗിച്ച് y യുടെ ഡെറിവേറ്റീവിന്റെയും y യുടെ ഇന്റഗ്രലുകളുടെയും ഏകദേശങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്നത് അതാണ് കൂടാതെ ഈ ഇംപ്ലിമെൻറ് ഫോമിനെ ഒരു പൊസിഷൻ ഫോം എന്ന് വിളിക്കുന്നു കാരണം ഇൻപുട്ട് മുഴുവൻ കണക്കാക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ചില സാഹചര്യങ്ങളിൽ u നേക്കാൾ Δu ജനറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ചോദ്യം Δu എങ്ങനെ സൃഷ്ടിക്കും എന്നതാണ് അതിനെ പിഐഡി കൺട്രോളറിന്റെ ഇൻക്രിമെൻറൽ റിയ ലൈസേഷൻ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ വെലോസിറ്റി ഫോം എന്നും വിളിക്കുന്നു അപ്പോൾ വെലോസിറ്റി ഫോമിന് എന്ത് സംഭവിക്കും നമ്മൾ Δu കണക്കുകൂട്ടേണ്ടതുണ്ട് Δu വളരെ എളുപ്പത്തിൽ u ആയി കണക്കാക്കുന്നു ഇത് മറ്റൊന്നുമല്ല U എന്നത് u u T തന്നെയാണ് അതിനാൽ നമ്മൾ മുമ്പത്തെ സമവാക്യത്തിൽ u u T എന്നിവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനുശേഷം കുറയ്ക്കുക എന്താണ് സംഭവിക്കുന്നത് പ്രൊപോഷണൽ പദത്തിൽ കുറയ്ക്കൽ നൽകുന്നത് KP e e T എന്നതാണ് അതുപോലെ തന്നെ ഇന്റഗ്രൽ പദം അടിസ്ഥാനപരമായി i i T എന്നിവയാണ് അതിനാൽ ഇത് ഞാൻ നേടിയ അധിക പദം നൽകും ഇത് Δu യുടെ ഇന്റഗ്രൽ ഭാഗവും Δu ന്റെ ഡെറിവേറ്റീവ് ഭാഗവുമാണ് ഇത് അടിസ്ഥാനപരമായി k 1 ലെ സമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് അടിസ്ഥാനപരമായി ഈ നിബന്ധനകളിൽ വ്യത്യാസം എടുക്കുന്നതിലൂടെ നമുക്ക് പൊതുവായ Δu വളരെ ലളിതമായി സൃഷ്ടിക്കാൻ കഴിയും ഇത് ബുദ്ധിമുട്ടുള്ള പ്രശ്നമല്ല എന്നിട്ട് ഒടുവിൽ നമ്മൾ u നൽകണം അതിനാൽ നമ്മൾ ചേർക്കുന്നു u T u നമ്മൾ കണക്കുകൂട്ടി അതിനാൽ അതിനൊപ്പം u T ചേർക്കേണ്ടതുണ്ട് ചില തരത്തിലുള്ള ആക്ച്യുവേറ്ററുകളും സ്റ്റെപ്പർ മോട്ടോറുകളും ഉണ്ട് അവിടെ ആക്ച്യുവേറ്റർ തന്നെ ഔട്ട്പുട്ടിനെ സമന്വയിപ്പിക്കുന്നു ഈ സംഗ്രഹം നിങ്ങൾ Δu നൽകിക്കൊണ്ടിരിക്കും ആക്ച്യുവേറ്റർ ക്രമേണ നീങ്ങുകയും അത് തുടർച്ചയായി ചേർക്കുകയും ചെയ്യും ഇപ്പോൾ സ്റ്റെപ്പർ മോട്ടോർ ഉപയോഗിച്ച് ഒരു പൊസിഷൻ കൺട്രോളിൽ Δu കൾ നൽകുന്നത് വളരെ സൌകര്യപ്രദമാണ് വാസ്തവത്തിൽ നൽകേണ്ടത് Δu ആണ് അതിനാൽ PID നിയന്ത്രണം ഈ രൂപത്തിൽ നടപ്പാക്കേണ്ടതുണ്ട് സാമ്പിൾ റിയലൈസേഷൻ കാരണം ഇൻക്രിമെൻറൽ റിയലൈസേഷനു ചില ദോഷങ്ങളുമുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ആണ് നിർമ്മിക്കുന്നത് ആദ്യ ഓർഡർ ഡെറിവേറ്റീവ് അല്ല കാരണം ഇതിനകം തന്നെ ഒരു ഡെറിവേറ്റീവ് പദം u യിലും ഉണ്ട് മാത്രമല്ല നമ്മൾ മറ്റൊരു ഡെറിവേറ്റീവ് നിർമ്മിക്കുകയും ചെയ്യുന്നു കാരണം u കണക്കുകൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ സാമ്പിൾ ഏകദേശ കണക്കുകൾ കാരണം ഉയർന്ന നോയിസ് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സാമ്പിൾ ഇടവേള നല്ലതും ചെറുതും ആയിരിക്കണം നമ്മൾ കണ്ട നേട്ടങ്ങൾ ബംപ് ലെസ്സ് ഓട്ടോ മാനുവൽ ട്രാൻസ്ഫർ നൽകുന്നത് വളരെ എളുപ്പത്തിൽ സാധ്യമാണ് മാത്രമല്ല ചില ആക്ച്യുവേറ്റർക്കും ഇത് നൽകേണ്ടതുണ്ട് ഇപ്പോൾ രസകരമായ ഒരു പ്രതിഭാസമുണ്ട് മോഡ് ഈ ഫോമിൽ നടപ്പിലാക്കി എന്ന രസകരമായ ഒരു വസ്തുതയുണ്ട് ഒരു PID കൺട്രോളർ ഉണ്ട് അടിസ്ഥാനപരമായി ഒരു ഇന്റഗ്രൽ മോഡ് ഉള്ളപ്പോൾ നിങ്ങൾ u പദം കണ്ടാൽ ഒരു ഘടകത്തിൽ പ്രൊപോഷണൽ ഘടകമായ e മൈനസ് e അടങ്ങിയിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും ഇപ്പോൾ ഈ ഘടകത്തിൽ r ഇല്ല റഫറൻസ് ഇൻപുട്ട് ദൃശ്യമാകില്ല കാരണം e എന്നത് r മൈനസ് y ന് തുല്യമാണ് അതുപോലെ തന്നെ e എന്നത് r മൈനസ് y ന് തുല്യമാണ് നിങ്ങൾ കുറയ്ക്കുകയും r സ്ഥിരമായി തുടരുകയാണെങ്കിൽ ഇത് സ്ഥിരമാവുകയും നിങ്ങൾക്ക് y മൈനസ് y ലഭിക്കുകയും ചെയ്യും അതിനാൽ ഡി മോഡിനും ഇതുതന്നെ സംഭവിക്കുന്നു പി പിഡി മോഡുകളിൽ r ദൃശ്യമാകില്ല റഫറൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സാവധാനത്തിൽ നീങ്ങുകയാണെങ്കിലും r ദൃശ്യം ആകില്ല പിശകിന്റെ ആകെ മൂല്യം വരില്ല ഇത് നിയന്ത്രണ ഇൻപുട്ടിൽ പ്രതിഫലിക്കുന്നില്ല പക്ഷേ ഇന്റഗ്രൽ പദത്തിൽ ഒരു e പദം ഉണ്ട് e ലളിതമാണ് അതിനാൽ അതിൽ r അടങ്ങിയിരിക്കുന്നു r റദ്ദാക്കില്ല അതിനാൽ സാധാരണയായി നിങ്ങൾ ഡിജിറ്റൽ കൺട്രോളറുകളെ ഇൻക്രിമെന്റൽ രൂപത്തിൽ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റഗ്രൽ മോഡ് ഉണ്ടായിരിക്കണം എന്ന് പറയപ്പെടുന്നു അല്ലാത്തപക്ഷം കൺട്രോളർ തിരുത്തൽ നടപടിയെടുക്കാതെ പ്രക്രിയ സെറ്റ് പോയിന്റിൽ നിന്ന് പതുക്കെ നീങ്ങാം അത് നമ്മുടെ പാഠത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കുന്നു പാഠം ഒരിക്കൽ അവലോകനം ചെയ്യാം നമ്മൾ പി ഐ ഡി മോഡുകൾ പരിശോധിച്ച് വിവിധ പദങ്ങൾ അവയുടെ നിർവചനങ്ങൾ പ്രൊപോഷണൽ ബാൻഡ് ഇന്റഗ്രൽ സമയവും ഡെറിവേറ്റീവ് സമയവും അർത്ഥങ്ങൾ അവ എങ്ങനെ അളക്കാം തുടങ്ങിയവ പരിശോധിച്ചു നാം വിവിധ നിയന്ത്രണ മോഡുകൾ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് സ്റ്റെഡി സ്റ്റേറ്റ് പ്രകടനം വിവിധ തരത്തിൽ നൽകാൻ കഴിയുo എന്ന് കണ്ടു ഉദാഹരണത്തിന് ഇന്റഗ്രൽ കൺട്രോൾ മോഡ് ഇന്റഗ്രൽ വിൻഡ് അപ്പിന് കാരണമാകുമെന്ന് നമ്മൾ കണ്ടു സമാനമായി നിങ്ങൾക്ക് സെൻസർ നോയിസ് ഡെറിവേറ്റീവ് കൺട്രോൾ മോഡിന് ധാരാളം നോയിസ് നൽകാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു അതിനാൽ പ്രകടനത്തിൽ ഈ നിയന്ത്രണ മോഡുകളുടെ ചില ഫലങ്ങൾ ചർച്ച ചെയ്തു d i മോഡുകളിലെ പ്രശ്നങ്ങൾ ഇവയാണ് അവസാനമായി നമ്മൾ ഡിജിറ്റൽ റിയലൈസേഷൻ ചർച്ചചെയ്തു ഇപ്പോൾ ചിന്തിക്കേണ്ട ചില പോയിന്റുകൾ നോക്കാം അതിൻറെ ഉത്തരം മുമ്പത്തെ പാഠങ്ങൾ പോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ ഈ അവതരണത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അത് കണ്ടെത്തും പ്രൊപോഷണൽ ബാൻഡ് നിർവചനം സമഗ്ര ഡെറിവേറ്റീവ് സമയങ്ങൾ സ്വയം എഴുതാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം ഇന്റഗ്രേറ്റർ വിൻഡപ്പ് കാരണമാകുന്ന ഘടകങ്ങൾ വിശദീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിനാൽ ഇന്റഗ്രൽ വിൻഡ് അപ്പ് അടിസ്ഥാനപരമായി രണ്ട് ഘടകങ്ങളാൽ സംഭവിക്കുന്നു അതിനാൽ ആ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ചചെയ്തു ഇന്റഗ്രൽ വിൻഡ് അപ്പ് ഒഴിവാക്കുന്ന രണ്ട് കൺട്രോൾ ആർക്കിടെക്ചറുകൾ അതിനാൽ അത് എങ്ങനെ ഒഴിവാക്കാം എന്നിട്ട് നിങ്ങൾ ഡെറിവേറ്റീവ് നിയന്ത്രണം നടപ്പിലാക്കുമ്പോൾ പ്ലാന്റിൽ അനാവശ്യമായ ഡിസ്റ്റർബൻസ് കളും ഷോക്കകളും ചേർക്കാത്ത രണ്ട് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ അവ എന്തൊക്കെയാണ് ഒടുവിൽ ഒരു പിഐഡി കൺട്രോളർ എങ്ങിനെ റിയൽലൈസ് ചെയ്യാം എന്ന നമ്മൾ നമ്മൾ കണ്ടു പൊസിഷൻ ഫോം വെലോസിറ്റി ഫോം എപ്പോഴാണ് ആണ് ഓരോന്നും ആവശ്യമെന്നും അവ എങ്ങനെ വേർതിരിക്കാമെന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഏതാണ് ആവശ്യമുള്ളപ്പോൾ ബമ്പ് ലെസ് കൈമാറ്റം എന്താണ് അത് എങ്ങനെ നേടാം അതിനാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പല പാഠപുസ്തകങ്ങളിലും ഈ പ്രഭാഷണത്തിലും ഉണ്ട് വളരെയധികം നന്ദി